അതിനാൽ നിങ്ങൾ ഒരു ഫേസർ ഡയഗ്രം വരയ്ക്കുമ്പോഴെല്ലാം അത് RMS മൂല്യത്തിലായിരിക്കണം നിങ്ങളുടെ ഉയർന്ന മൂല്യം എടുക്കരുത് എസി സർക്യൂട്ടിനെക്കുറിച്ച് കുറച്ച് മനസ്സിലാക്കൽ ആവശ്യമാണ് എന്തായാലും നിങ്ങൾ ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എല്ലാം വളരെ എളുപ്പമായിരിക്കും അതിനാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം നൽകിയിരിക്കുന്നു രണ്ട് രീതികളും ഉപയോഗിച്ച് കണ്ടെത്തുക ഇപ്പോൾ ചതുരാകൃതിയിലുള്ള അല്ലെങ്കിൽ പോളാർ രൂപത്തിൽ കറന്റ് പ്രകടിപ്പിക്കുന്നു ഇപ്പോൾ ഈ കാര്യങ്ങൾ എന്തായാലും ഉദാഹരണത്തിന് i1 എന്നത് 5√ 2 ആംഗിൾ 0o ആണെന്നും i2 എന്നത് 10 sin ω t 60o ആണെന്നും കരുതുക ഇത് എടുക്കും അതിനാൽ ഇത് ആംഗിൾ 60o ആണ് ഇത് ഒരു ഉയർന്ന മൂല്യമാണ് അതിനാൽ നിങ്ങൾ ഫാസർ പോലെ പ്രതിനിധീകരിക്കുമ്പോൾ അത് 10√ 2 ഇത് RMS മൂല്യവും ആംഗിൾ 60o ഉം ആണ് അതിനാൽ നിങ്ങൾ i1 i2 എന്നിവ ഗുണിച്ചാൽ അത് ഈ കാര്യത്തിന് മാത്രമാണ് അതിനാൽ ഇത് 5 10 502 ആയിരിക്കും അതിനാൽ 25 ഉം 0o 60o ഉം ആയിരിക്കും അതിനാൽ ആത്യന്തികമായി അതിന് 60o നൽകും നിങ്ങൾ i1i2 വിഭജിച്ചാൽ അത് 52 ആംഗിൾ 0o ഉം 102 ആംഗിൾ 60o ഉം ആയിരിക്കും 5 ആയിരിക്കും ആംഗിൾ 60o ഇത് ഇതുപോലുള്ള ഒന്നാണ് നിങ്ങൾക്ക് ന്യൂമറേറ്റർ ൽ ആംഗിൾ 1 ഉണ്ടെന്ന് കരുതുക ഡിനോമിനേറ്ററിൽ നിങ്ങൾക്ക് ആംഗിൾ 2 ഉണ്ടെങ്കിൽ ഇത് ആംഗിൾ 1 2 ആയിരിക്കും അതിനാൽ നിങ്ങൾ ന്യൂമറേറ്ററിൽ ആംഗിൾ എഴുതുകയാണെങ്കിൽ ഈ ആംഗിൾ ഇതിൽ നിന്ന് കുറയ്ക്കപ്പെടും ഇപ്പോൾ അത് നൽകിയിട്ടുണ്ടെങ്കിൽ ഉദാഹരണത്തിന് 2 ആംഗിൾ 15 ആംഗിൾ 2 അങ്ങനെ 25 എന്നത് 0 4 ആംഗിൾ 1 θ2 ആണെന്ന് കരുതുക ഈ രീതിയിൽ നിങ്ങൾക്ക് എഴുതാം ഇപ്പോൾ വീണ്ടും ഞാൻ അത് മായ്ക്കട്ടെ 2 ആംഗിൾ 1 5 ആംഗിൾ 2 ആണെന്ന് കരുതുക ഇവിടെ നിങ്ങൾക്ക് ന്യൂമറേറ്ററിൽ വേണം അപ്പോൾ അത് ആംഗിൾ 1 2 ആയിരിക്കും എന്നാൽ നിങ്ങൾക്ക് ഡിനോമിനേറ്ററിൽ വേണമെങ്കിൽ അത് 25 ആയിരിക്കും പിന്നെ നിങ്ങൾ ഈ രീതിയിൽ എഴുതുകയാണെങ്കിൽ അത് 2 1 അതിനാൽ ഈ സാഹചര്യത്തിൽ ഇത് 5√ 210√ 2 ആണ് 5 ആയിരിക്കും അത് യഥാർത്ഥത്തിൽ ആംഗിൾ 0o ആംഗിൾ 60o ന്യൂമറേറ്റർ 0o ഡിനോമിനേറ്റർ 60o യഥാർത്ഥത്തിൽ 0o 60o ആംഗിൾ 60o വരുന്നു അതുകൊണ്ടാണ് അത് 60o അതിനാൽ ഇത് നിങ്ങളുടെ ഹയർ സെക്കണ്ടറി ഗണിതത്തിൽ നിന്നുള്ള 11 ാം ക്ലാസ് ലെ കോംപ്ലക്സ് നമ്പർ ന്റെ അധ്യായത്തിലാണ് അതിനാൽ ഞാൻ അത് മായ്ക്കട്ടെ അതിനാൽ അത് പരിഹരിക്കുന്ന ഒരു സംഖ്യാ പ്രശ്നം നൽകിയിരിക്കുന്നു നമ്മൾ i1 i2 i3 എന്നിവ കണ്ടെത്തണം ഇവിടെ നിങ്ങൾ KCL i3 i1 i2 ഇടും അതനുസരിച്ച് നിങ്ങൾ അത് ചെയ്യും അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നൽകിയാലും അത് നൽകുന്നത് i1 ആണ് ഇത് i2 ഇത് നൽകുന്നു നിങ്ങൾ i3 കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഉത്തരം 50 √ 2 sin ω t ആണ് ഇപ്പോൾ അടുത്തത് ഒരു സൈനുസോയിടൽ ഇൻപുട്ട് ന് ഉള്ള RLC സർക്യൂട്ടിന്റെ സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ് ആണ് അതിനാൽ നമ്മൾ ഒന്നൊന്നായി പരിഗണിക്കും ആദ്യം പ്രാഥമിക സർക്യൂട്ട് പൂർണ്ണമായും റെസിസ്റ്റീവ് ആയ സർക്യൂട്ട് ഈ സാഹചര്യത്തിൽ ഇൻസ്റ്റന്റന്റ്സ് പൊളാരിറ്റി ആണെന്ന് കരുതുക ഈ ഇൻസ്റ്റന്റന്റ്സ് പൊളാരിറ്റി ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ വോൾട്ടേജ് ഉറവിടം V Vm sin ω t അതിനാൽ നിങ്ങൾ IR വൈദ്യുതി നഷ്ടം മുതലായവ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ആ സാഹചര്യത്തിൽ പൊതുവേ നമ്മൾ എഴുതുന്നത് IR VR എന്നാണ് കാരണം ഇത് വോൾട്ടേജ് V Vm sin ω t ആണ് ഇത് R ആണ് ഇത് ഒരു റെസിസ്റ്റീവ് സർക്യൂട്ട് ആണ് അതിനാൽ ഇത് V Vm sin ω t ആണ് അതിനാൽ ഇത് Vm R sin ω t ആണ് ഇത് Im sin ω t Im യഥാർത്ഥത്തിൽ Vm R ആണ് ഇത് കറന്റിന്റെ പരമാവധി മൂല്യമാണ് ഇപ്പോൾ നിലവിലെ RMS മൂല്യം IR വോൾട്ടേജിന്റെ rms മൂല്യംറെസിസ്റ്റൻസ് ആണ് അതിനാൽ Vm ആണ് പരമാവധി മൂല്യം അതിനാൽ ഇത് RMS മൂല്യം Vm√ 2 അതിനാൽ നിലവിലെ RMS മൂല്യം Vm√ 2R ആണ് ഇത് യഥാർത്ഥത്തിൽ Im√ 2 കാരണം Im VmR അതിനാൽ ഇവിടെ നിങ്ങൾ Im VmR ഇട്ടാൽ അത് Im√ 2 ആണ് ഇതാണ് നിങ്ങളുടെ കറന്റ് ഇപ്പോൾ V Vm sin ω t ഞാൻ അത് വീണ്ടും മായ്ക്കട്ടെ അപ്പോൾ അത് എളുപ്പമാകും V Vm sin ω t എന്ന് കരുതുക അതിനാൽ ഈ സാഹചര്യത്തിൽ ഇത് ആംഗിൾ ωt 0o ആയി ബന്ധപ്പെട്ടിരിക്കുന്ന താഴ്ന്ന ആംഗിൾ ആണ് നിങ്ങൾ ഇത് ഒരു ഫാസർ രൂപത്തിൽ വയ്ക്കുകയാണെങ്കിൽ RMS മൂല്യം എടുക്കുക അതിനാൽ നമുക്ക് V അരരൌ Vm√ 2 ആംഗിൾ 0o എഴുതാം വോൾട്ടേജിന്റെ RMS മൂല്യമാണ് Vm√ 2 അതുപോലെ കറന്റിനും ഉണ്ട് IR Im sin ω t ഇങ്ങനെ നീങ്ങുന്ന ഈ കറന്റ് IR ആണ് അതിനാൽ IR Im√ 2 ആംഗിൾ 0o കാരണം ഇവിടെയും അതുമായി ബന്ധപ്പെട്ട ഒരു ആംഗിൾ ഉം ഇല്ല V യും I ഉം ആംഗിൾ 0o ആണ് അതായത് അവർ ഒരേ ഫേസ് ൽ ആണ് ഇവിടെ അവർ ഒരേ ഫേസ് ൽ ആണ് IR V രണ്ടും ഒരേ ഫേസ് ൽ ആണ് അതിനാൽ രണ്ട് ആംഗിളും 0 അതിനാൽ രണ്ടും ഒരേ ഫേസ് ൽ ആണ് ഇപ്പോൾ V V ആംഗിൾ 0 അതിനാൽ V എന്നത് വോൾട്ടേജിന്റെ മാഗ്നിറ്റുഡ് ആണ് അതിനാൽ V ആംഗിൾ 0 എന്നാൽ cos 0 j sin 0 cos 0 1 sin 0 0 എന്നിവയാണ് അതുകൊണ്ടാണ് നമുക്ക് V j 0 എന്ന് എഴുതാൻ കഴിയുന്നത് അതുപോലെ നിലവിലെ IR ആംഗിൾ 0 ആണ് അങ്ങനെ cos 0 j sin 0 o അതിനാൽ അത് IR j 0 1 j 0 ആയി മാറുന്നു അതിനാൽ വോൾട്ടേജിനൊപ്പം കറന്റ് ഒരേ ഫേസ് ൽ ആണ് ഇത് വോൾട്ടേജിൽ ഒരേ ഫേസ് ൽ ആയിരിക്കും അതിനാൽ പവർ ന് അടുത്തായി പവർ വരും അതിനാൽ ഞാൻ അത് മായ്ക്കട്ടെ അതിനാൽ ഈ സാഹചര്യത്തിൽ കറന്റ് വോൾട്ടേജുള്ള ഒരേ ഫേസ് ൽ ആയിരിക്കും അപ്പോൾ AC സർക്യൂട്ട് ഇംപെഡൻസ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ചോദ്യം ഇംപെഡൻസ് ഫംഗ്ഷൻ 2 പ്രധാന വസ്തുത പറയണം എന്നതാണ് Vm മുതൽ Im അല്ലെങ്കിൽ V മുതൽ I വരെയുള്ള റെഷിയോ അതായത് AC സർക്യൂട്ടിലാണെങ്കിൽ അടിസ്ഥാനപരമായി ഇംപെഡൻസോടെയാണ് അതിനാൽ ഇംപെഡൻസ് Z ആകും അതിനാൽ നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പർ ആയ Z ബാർ ഇടും അത് VmIm അല്ലെങ്കിൽ Vm√ 2Im√ 2 ആയിരിക്കും അതാണ് വോൾട്ടേജിന്റെ rms മൂല്യം കറന്റ് ന്റെ rms മൂല്യം അല്ലെങ്കിൽ വോൾട്ടേജിന്റെ ഏറ്റവും ഉയർന്ന മൂല്യം കറന്റ് ന്റെ ഉയർന്ന മൂല്യം അതിനാൽ ഇത് യഥാർത്ഥത്തിൽ കോംപ്ലക്സ് നമ്പർ ആണ് അതിനാൽ Z ഇമ്പിഡൻസ് ഒരു ഫേസർ അളവല്ലെങ്കിൽ ഞാൻ പിന്നീട് ഇതിലോട്ട് വരും അതിനാൽ ഇത് ഒന്നെങ്കിൽ വോൾട്ടേജിന്റെ rms മൂല്യംകറന്റിന്റെ rms മൂല്യം ഇത് മാഗ്നിറ്റുഡ് മാത്രമാണ് അതിനാൽ ഇപ്പോൾ ബാർ ഇടാതിരിക്കുന്നതാണ് നല്ലത് അതിനാൽ അതിന്റെ മാഗ്നിറ്റുഡ് മാത്രമാണ് ആംഗിൾ നമുക്ക് പിന്നീട് കാണാം അതിനാൽ വാസ്തവത്തിൽ ഒന്നുകിൽ വോൾട്ടേജിന്റെ ഏറ്റവും ഉയർന്ന മൂല്യം കറന്റിന്റെ ഏറ്റവും ഉയർന്ന മൂല്യം ഇംപെഡൻസിന്റെ മാഗ്നിറ്റുഡ് അല്ലെങ്കിൽ വോൾട്ടേജിന്റെ rms മൂല്യം കറന്റിന്റെ rms മൂല്യം അതാണ് പ്രധാനമായും പറഞ്ഞത് ഇവിടെ അതിനാൽ റെസിസ്റ്റീവ് സർക്യൂട്ടിന്റെ കാര്യത്തിൽ റെസിസ്റ്റീവ് സർക്യൂട്ടിന്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ R മാത്രമേയുള്ളൂ അത് ഇമ്പിഡൻസ് അല്ല യഥാർത്ഥത്തിൽ കോംപ്ലക്സ് നമ്പർ ആണ് പക്ഷേ R ന്റെ കാര്യത്തിൽ ഇത് R മാത്രമാണ് അതിനാൽ Z നമുക്ക് R j 0 എഴുതാം അതിനാൽ X അവിടെ ഇല്ല റിയാക്ടൻസ് ഭാഗം പിന്നീട് കാണാം അതിനാൽ X അവിടെ ഇല്ല അതിനാൽ Z ഇവിടെ നിങ്ങൾക്ക് Z R j 0 നമുക്ക് Z ആംഗിൾ 0 കാരണം ഇത് നിങ്ങളുടെ 0 ആണ് ഇത് R ആണ് അതിനാൽ ഇത് സങ്കീർണ്ണ സംഖ്യയാണ് ഇത് ഒരു കോംപ്ലക്സ് നമ്പർ ആണ് അതിനാൽ പൊതുവേ ഒരു a j b എന്നത് കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ ഈ ആംഗിൾ θ tan 1 ba ഇത് അറിയാം അതിനാൽ ആ സാഹചര്യത്തിൽ അത് R j 0 ആക്കിയിട്ടുണ്ടെങ്കിൽ അതായത് a R b 0 അതിനാൽ ഇത് 0R ആയിരിക്കും അതിനാൽ θ 0 അതുകൊണ്ടാണ് ആംഗിൾ 0 ആകുന്നത് അതിനാൽ അതുകൊണ്ടാണ് Z ഈ Z വ്യാപ്തിയും Z അടിസ്ഥാനപരമായി R പ്രതിരോധം മാത്രം അതിനാൽ ഇത് അരരൌ ഇവിടെ ഇല്ല എഴുത്ത് പിശക് അറിയുക ഞാൻ എല്ലായിടത്തും തിരുത്താൻ ശ്രമിക്കും അരരൌ ഇടരുത് ഇത് ഒരു ഫേസർ അളവല്ല നിങ്ങൾ Z ബാർ ഇടുന്ന കോംപ്ലക്സ് നമ്പർ ഉദ്ദേശിക്കാണ് ഇത് ഒരു ഫേസർ അളവല്ല വോൾട്ടേജും കറന്റും രണ്ടും ഫാസർ അളവാണെങ്കിൽ Z ഒരു ഇംപെഡൻസ് ആണെങ്കിൽ അത് ഒരു ഫേസർ അളവല്ല അതിനാൽ ഇതാണ് നൊട്ടേഷൻ അതിനാൽ എല്ലാം എഴുതിയിരിക്കുന്നു ഇപ്പോൾ അടുത്തത് പവർ ആണ് പിയൂവർ റെസിസ്റ്റീവ് സർക്യൂട്ടിനുള്ള ഇമ്പിഡൻസ് ഇവിടെ അത് ബാർ മാത്രമായിരിക്കും അമ്പടയാളമില്ല പല സ്ഥലങ്ങളും അവിടെയുണ്ട് ഇത് എഴുത്ത് പിശകാണ് അതിനാൽ ദയവായി ഞാൻ അത് തിരുത്തുകയാണ് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ R ആംഗിൾ 0 ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്തും Z R R ആംഗിൾ 0 ഇപ്പോൾ ഇൻസ്റ്റന്റന്റ്സ് പവർ കാരണം AC സർക്യൂട്ട് അത് സമയം വഹിക്കുന്നു അതിനാൽ ഇൻസ്റ്റന്റന്റ്സ് പവർ p v I അതിനാൽ v Vm sin ω t കൂടാതെ I Im sin ω t അതിനാൽ നിങ്ങൾ ഇത് ഗുണിച്ചാൽ അത് Vm Im sin 2 ωt അല്ലെങ്കിൽ p cos 2θ 1 2 sin 2θ ആയിരിക്കും അതിനാൽ sin 2 1 cos 2 2 അതിനാൽ ഇവിടെ ഇത് 1 cos 2 ω t2 ആണ് അങ്ങനെ ചെയ്താൽ അത് Vm Im2 Vm Im2 cos 2 ω t ആകും ഇത് നിങ്ങൾക്കറിയാം അതിനാൽ ഒരിക്കൽ നിങ്ങൾ ചെയ്തുകഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന ആവറേജ് പവർ p 1T 0 മുതൽ T p dt വരെ ആവറേജ് പവർ അതിനാൽ നിങ്ങൾ ആവറേജ് പവർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പ്ലോട്ട് നോക്കുകയാണെങ്കിൽ ഇത് Vm Im2 എന്ന നിരന്തരമായ പദമാണ് അതിനാൽ ഇത് Vm Im2 ലൈനാണ് ഇത് Vm Im2 ലൈൻ ആണ് ഇത് കാണിച്ചിരിക്കുന്നു മറ്റൊരു പദം ഡബിൾ ഫ്രേക്യുഎൻസി ആണ് Vm Im2 cos 2 ω t അതിനാൽ ഇത് Vm Im2 cos 2 ω t ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ച് പ്ലോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ കട്ടിയുള്ള രേഖ ഇതാണ് നിങ്ങളുടെ p ഇതാണ് p പ്ലോട്ട് അതിനാൽ മൊത്തം സമയ ഇടവേളയിൽ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആവറേജ് പവർ അതിനാൽ p 1T 0 മുതൽ T Vm Im2 Vm Im2 cos 2 ω t dt നിങ്ങൾ ഇത് ഇന്റഗ്രേറ്റ് ചെയാണെങ്കിൽ നിങ്ങൾക്ക് V I ലഭിക്കും V വോൾട്ടേജിന്റെ rms മൂല്യം i കറന്റിന്റെ rms മൂല്യമാണ് നിങ്ങൾ ω 2πT ബന്ധം ഉപയോഗിച്ച് ഇന്റഗ്രേറ്റ് ചെയാണെങ്കിൽ നിങ്ങൾക്ക് V I ലഭിക്കും അത് Vm√ 2 ആണ് I Im√ 2 അതായത് V Vm√ 2 V എന്നത് rms മൂല്യവും I Im√ 2 എന്നത് rms മൂല്യവുമാണ് അതിനാൽ അടിസ്ഥാനപരമായി ഇത് v I ആണ് കാരണം ഇത് തികച്ചും റെസിസ്റ്റീവ് സർക്യൂട്ട് ആണ് അതിനാൽ പവർ v I ഉൽപാദിപ്പിക്കുന്ന എനർജി ചൂടാക്കി മാറ്റുകയും ഡിസിപ്പേറ്റ ചെയുകയും ചെയ്യുന്നു എനർജി ഉൽപാദിപ്പിക്കുന്നതെന്തും അത് റെസിസ്റ്ററിൽ ഡിസിപ്പേറ്റ ചെയ്യുന്നു കാരണം ഇത് തികച്ചും റെസിസ്റ്റീവ് സർക്യൂട്ട് ആണ് അതിനാൽ ഇത് v i ആണ് അതിനാൽ AC വിതരണമുള്ള ഒരു റെസിസ്റ്റീവ് സർക്യൂട്ടിനായി V Vm sin ω t power p v i പക്ഷേ ഈ സാഹചര്യത്തിൽ V എന്നത് വോൾട്ടേജിന്റെ RMS മൂല്യവും I എന്നത് കറന്റ് ന്റെ RMS മൂല്യവുമായിരിക്കണം അടുത്തത് തികച്ചും ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണ് അല്പം മനസ്സിലാക്കൽ ഇവിടെ ഞാൻ യഥാർത്ഥത്തിൽ ചെയ്തത് ഞാൻ ഒരു സമയം ഒരൊറ്റ ഘടകം എടുത്തിട്ടുണ്ട് അത് ഞങ്ങളുടെ ആശയം എങ്ങനെയാണെന്ന് കാണാൻ ശ്രമിക്കും അതിനാൽ അടുത്തത് തികച്ചും ഇൻഡക്റ്റീവ് സർക്യൂട്ടാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ ഇൻസ്റ്റന്റന്റ്സ് പൊളാരിറ്റി ഉണ്ടാകും ഞാൻ അത് വിട്ടു പോയി ഇത് ആണ് ഇത് ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണ് അത് L ആണ് മറ്റ് എലെമെന്റ്സ് ഒന്നുമില്ല ഇതിലൂടെ ഒഴുകുന്ന കറന്റ് iL ഉം ഇൻസ്റ്റന്റന്റ്സ് പൊളാരിറ്റി ഉം ആണ് അതിനാൽ ആ സാഹചര്യത്തിൽ V L d iLdt അത് V Vm sin ω t നൽകിയിട്ടുണ്ടെന്ന് നമുക്കറിയാം അതിനാൽ L d iLdt Vm sin ω t അതിനാൽ d iL VmL sin ω t dt നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് iL Vm ω L cos ω t ലഭിക്കും അതിനാൽ ഇന്റഗ്രേഷൻ ന്റെ ഈ കോൺസ്റ്റന്റ് സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ് ൽ 0 ആണ് കാരണം ഇത് X ആക്സിസിനെ സംബന്ധിച്ച് സിമെട്രിക്കൽ ആണ് അതിനാൽ ഇന്റഗ്രേഷൻ ന്റെ ഈ കോൺസ്റ്റന്റ് ഇല്ല അതിനാൽ ഇത് iL Vmω L cos ω t ആണ് അതിനാൽ ഇത് iL Vmω L cos ωt നിങ്ങൾക്ക് Vmω L sin ω t 90 o എഴുതാം അതിനാൽ ഞാൻ അത് മായ്ക്കട്ടെ അതിനാൽ ഇത് നിങ്ങൾക്ക് എഴുതാം Vmω L cos ω t നിങ്ങൾക്ക് sin 90 o ω t എന്ന് എഴുതാൻ കഴിയും ഇത് അവിടെയുണ്ട് നിങ്ങൾ sin ഉപയിഗികുമ്പോൾ അകത്തേക്ക് പോകും അത് ω t 90 o ആയിരിക്കും അതുകൊണ്ടാണ് iL Vmω L sin ω t 90o അതിനാൽ ഇതിനെ Im sin ω t 90 o എന്ന് എഴുതാം അതിനർത്ഥം ഈ Im Vmω L അതിനാൽ ഞാൻ അത് മായ്ക്കട്ടെ അതിനാൽ ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ വോൾട്ടേജ് V Vm sin ωt ആണ് അതിനാൽ ഇത് ഇവിടെ എഴുതട്ടെ V Vm sin ω t അതുമായി ബന്ധപ്പെട്ട ഒരു ആംഗിളും ഇല്ല നിങ്ങൾ ഈ കാര്യം വെച്ചാൽ V എന്നത് RMS മൂല്യമാണ് അത് Vm√ 2 ആണ് അത് 0 ആംഗിൾ ആയിരിക്കണം V എന്നത് RMS മൂല്യമാണ് ഇത് Vm√ 2 ആയിരിക്കും അതുപോലെ ഇവിടെ കറന്റ് Im sin ω t 90 o അതിനാൽ ഈ iL എഴുതാൻ കഴിയും ഇത് ഒരു ഫാസർ ക്വാണ്ടിറ്റി iL ആംഗിൾ 90o ആയി എഴുതാം ഇത് ആംഗിൾ ആണ് 90o കാത്തിരിക്കൂ ഇവിടെ എഴുതട്ടെ ഈ iL ഒരു ഫാസർ അളവാണ് നമ്മൾ ഇത് rms മൂല്യത്തിൽ എഴുതുകയാണെങ്കിൽ iL Im√ 2 അതായത് അത് 90o ഞാൻ അത് മായ്ക്കട്ടെ അതിനർത്ഥം ഇവിടെ നിന്ന് ഈ ഡയഗ്രം ഞാൻ പിന്നീട് വരും അതായത് ഇത് വോൾട്ടേജ് ആണ് ഇത് വോൾട്ടേജ് ഫാസർ ആണ് അതായത് V ആംഗിൾ 0 ഉം കറന്റും ആണ് അത് ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു ഇത് ഇവിടെ എഴുതിയിരിക്കുന്നു iL 90o അതിനാൽ വോൾട്ടേജിൽ നിന്നുള്ള കറന്റ് ന്റെ ലാഗ് പൂർണ്ണമായും ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ 90o ആണ് ഇവിടെ അത് അമ്പടയാളമാകരുത് അത് Z ബാർ കോംപ്ലക്സ് നമ്പർ ആയിരിക്കണം ഇപ്പോൾ നിങ്ങൾ ഇതുപോലെ കാണപ്പെടുന്നു എന്നാണ് ഇതിനർത്ഥം ഉദാഹരണത്തിന് v V rms മൂല്യം ആംഗിൾ 0o I iL ആംഗിൾ 90o അതിനാൽ യഥാർത്ഥത്തിൽ Z V അമ്പടയാളം I അമ്പടയാളം അതായത് ഇവിടെ എന്തെഴുതിയാലും നമ്മൾ Z L ഇടുന്നു അതിനാൽ Z L V ഇടുക V V ആംഗിൾ 0 I rms എന്നിവ നിങ്ങൾക്കറിയാം ഇത് rms മൂല്യമാണ് അതിനാൽ iL ആണ് rms മൂല്യം അതായത് Vm√ 2 ആംഗിൾ 90o അത് മായ്ക്കാൻ എന്നെ അനുവദിക്കൂ അല്ലാത്തപക്ഷം അത് വികൃതമായിത്തീരുന്നു അതിനാൽ V അമ്പടയാളം I അമ്പടയാളം Z L V rms അല്ലെങ്കിൽ V iL ആംഗിൾ 90o ഇതാണ് iL ആംഗിൾ 90o അതിനാൽ V Vm√ 2 ഉം iL rms മൂല്യം Im√ 2 അതായത് Vm √ 2 അപ്പോൾ ഇത് √ 2 ω L ഇത് യഥാർത്ഥത്തിൽ ω L ആംഗിൾ 90o ആണ് അതിനാൽ ഇത് ω L ആംഗിൾ 90o ആണ് അതായത് Z ബാർ ω L ആംഗിൾ 90o ആയിരിക്കും അതിനാൽ ഇവിടെയും അതുതന്നെ ചെയ്തിട്ടുണ്ട് ഇതും ബാർ ആണ് അതിനാൽ V ω L ആംഗിൾ 90o ആണ് തുടക്കത്തിൽ ചെറിയ പരിശീലനം ആവശ്യമാണ് അതിനാൽ എവിടെയും ആശയക്കുഴപ്പം ഉണ്ടാകരുത് ഞാൻ എഴുതിയ Z ബാർ എവിടെയാണെങ്കിലും അത് അബദ്ധത്തിലാണ് കോംപ്ലക്സ് നമ്പർ നെ പ്രതിനിധീകരിക്കാൻ ലളിതമായി ബാർ ഇടുക കാരണം Z ഫേസർ അളവിലല്ല അതിനാൽ ഇത് ഒരു കോംപ്ലക്സ് നമ്പർ ആണ് റിയൽ പാർട്ട് ഉം ഇമാജിനേരി പാർട്ട് ഉം പിന്നീട് കാണാം അതിനാൽ ഇത് യഥാർത്ഥത്തിൽ ω L 90o ആണ് അതായത് ഇൻഡക്റ്റീവ് സർക്യൂട്ടിനായി ഞാൻ അത് മായ്ക്കട്ടെ അതിനാൽ ഇൻഡക്റ്റീവ് സർക്യൂട്ടിന് ഇത് Z L ആണ് അതായത് Z L Lω ചിലപ്പോൾ നമ്മൾ X L എന്ന് വിളിക്കുന്നു അതാണ് സർക്യൂട്ടിന്റെ റിയാക്ടൻസ് അതിനാൽ ഇൻഡക്റ്റീവ് റിയാക്ടന്റ് L ω ω 2πf അതിനാൽ X L 2πf L പിന്നീട് സംഖ്യാ പ്രശ്നം പരിഹരിക്കുമ്പോൾ നമുക്ക് അത് അറിയാം അതിനാൽ ഇത് യഥാർത്ഥത്തിൽ മുകളിൽ പറഞ്ഞ ഇമ്പിഡൻസ് ന്റെ അളവാണ് ω L ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് വിളിക്കുന്നു ഞാൻ X L L ω 2πf L പ്രതിനിധീകരിക്കുന്നു എല്ലാം ഇവിടെ എഴുതിയിരിക്കുന്നു കുറിപ്പുകൾ യഥാർത്ഥത്തിൽ അൽപ്പം ക്ലമസ്യ ആണ് കാരണം ഇവിടെ വളരെ അടുത്ത് എഴുതിയിരിക്കുന്നു പക്ഷേ അത് വായിക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സൂം ചെയ്യുക അത്രമാത്രം അതിനാൽ ഇതിനർത്ഥം നിങ്ങൾ ഇത് പരിശോധിക്കുകയാണെങ്കിൽ പവർ വരും ഇപ്പോൾ ഇത് പരിശോധിച്ചാൽ ഈ ഡാഷ് ലൈൻ വോൾട്ടേജാണ് ഇതാണ് വോൾട്ടേജ് വേവ്ഫോം കാരണം V തുല്യമാണ് Vm sin ω t അതിനാൽ ഇത് 0 മുതൽ ആരംഭിക്കുന്നു I യുടെ കാര്യത്തിൽ അത് 90o വരെ പിന്നിലാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ആരംഭിക്കുന്നത് ഇതാണ് ഞാൻ 90o ഓളം പിന്നാക്കം നിൽക്കുന്നത് I sin ω t 90 o എന്ന I ന്റെ പ്രകടനമാണിത് ω t 0 ആയിരിക്കുമ്പോൾ Im sin 90o so Im അതിനാൽ ഇവിടെ അത് ആരംഭിക്കുകയാണ് ഇതാണ് I ഞാൻ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് അതിനാൽ അടുത്തത് പവർ ആണ് ഇവിടെ പവർ ഗ്രാഫ് ഉണ്ട് ആദ്യം നീ ഇപ്പോൾ ഇവിടെ വരൂ അതിനർത്ഥം പൂർണ്ണമായും ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ കറന്റ് 90o വോൾട്ടേജിനെക്കാൾ പിന്നിലാണ് ഇത് ഫേസർ ഡയഗ്രാമിൽ നിന്ന് ലഭിച്ചു ഇൻസ്റ്റന്റന്റ്സ് പവർ p v i ആണ് ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ V Vm sin ω t കൂടാതെ I Im sin ω t 90o അതിനർത്ഥം Vm Im sin ω t cos ωt കാരണം അത് sin ω t 90 o ആണ് എടുക്കുക sin പുറത്താക്കുക അത് അവിടെ ഉണ്ടാകും അതിനാൽ ഇത് sin 90 o ω t അതിനാൽ അത് വളരെ നല്ലതാണ് അതുകൊണ്ടാണ് sin ഇല്ല അതിനാൽ ഇപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 കൊണ്ട് ഗുണിക്കുക അതിനാൽ ഇത് ആയിരിക്കും Vm Im2 2 sin cos ωt cos ω t അതായത് 2 sinθ cosθ അതാണ് sin 2θ അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് Vm Im2 sin 2 ω t ഇത് p v i ആണ് ഇപ്പോൾ ആവറേജ് പവർ 1 മുതൽ T വരെയാണ് അത് 0 ആയി മാറും ഈ ബന്ധം എപ്പോഴും ഉപയോഗിക്കുക ω i 2πT ഈ ബന്ധം എപ്പോഴും ഉപയോഗിക്കുന്നു അതിനാൽ നിങ്ങൾ ഇൻഡക്റ്റീവ് സർക്യൂട്ട് 1T 0 മുതൽ T p dt വരെ ആവറേജ് പവർ ഉണ്ടാക്കുകയാണെങ്കിൽ അത് 0 ആയി മാറും കാരണം ഇവിടെ ഒരു റെസിസ്റ്റർ ഇല്ല അതിനാൽ പൂർണ്ണമായും ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ പവർ നെ ക്കുറിച്ച് ഒരു ചോദ്യവുമില്ല അതിനാൽ ഞാൻ അത് മായ്ക്കട്ടെ ഇപ്പോൾ നിങ്ങൾ പവർ നോക്കുകയാണെങ്കിൽ ഇത് ഡബിൾ ഫ്രേക്യുഎൻസി ആണ് അതിനാൽ നിങ്ങൾ അത് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പവർ വ്യതിയാനം 2ω ന്റെ ഇരട്ട ഡബിൾ ഫ്രേക്യുഎൻസി ആണ് ഇത് 2 ω ആണ് കാരണം ഇത് 2 ω ആണ് അബ്സോർബ് ചെയ്യപ്പെട്ട ആവറേജ് പവർ 0 ആണ് ഇതിനർത്ഥം ബാധകമായ വോൾട്ടേജിന്റെ 1 പാദത്തിൽ ഇൻഡക്റ്റീവ് മൂലകത്തിന് ഉറവിടങ്ങളിൽ നിന്ന് എനർജി ലഭിക്കുകയും ഒരു സൈക്കിളിന്റെ അടുത്ത പാദത്തിൽ ഡ്രൈവിംഗ് സ്രോതസ്സുകളിലേക്ക് കൃത്യമായി എനർജി തിരികെ നൽകുകയും ചെയ്യുന്നു എന്നതാണ് ഇത് ഡബിൾ ഫ്രേക്യുഎൻസി ആണ് അതിനാൽ ഞാൻ അത് മായ്ക്കട്ടെ ഈ കണക്കിലേക്ക് വരൂ ഇപ്പോൾ നിങ്ങൾ ഈ കണക്കിലേക്ക് വന്നാൽ ഇത് നിങ്ങളുടെ പവർ എക്സ്പ്രഷൻ ആണ് ഈ കട്ടിയുള്ള രേഖയാണ് പവർ എക്സ്പ്രഷൻ അതിനാൽ അത് 0 ആണെങ്കിൽ അത് T4 ആയിരിക്കും അത് T2 ആണ് അത് 3 T4 ആണ് ഇത് T ആണ് അതായത് നിങ്ങൾ ഇത് എടുത്താൽ ഇത് 0 ആണ് ഇത് π2 ആണ് ഇത് π ആണ് ഇത് 3π2 ആണ് ഇത് 2π ആണ് അതിനാൽ നിങ്ങൾ അത് പരിശോധിക്കുകയാണെങ്കിൽ ഈ കറന്റ് അല്ലെങ്കിൽ വോൾട്ടേജ് യഥാർത്ഥത്തിൽ 0 നും π നും ഇടയിലുള്ള പകുതി സൈക്കിൾ കണക്കുകൂട്ടുന്നു ഞാൻ അത് മായ്ക്കട്ടെ ഇത് 0 ആണ് ഇത് π ആണ് ഇത് 2π ആണെന്ന് കരുതുക അതിനാൽ നിങ്ങൾ ഈ പോയിന്റ് നോക്കുകയാണെങ്കിൽ അത് π2 ആണ് അതിനാൽ കറന്റോ വോൾട്ടേജോ എടുക്കുന്നതെന്തും ഉദാഹരണത്തിന് വോൾട്ടേജ് 0 മുതൽ π വരെ പകുതി ചക്രം പൂർത്തിയാക്കുന്നു അതേസമയം ഈ പവർ യഥാർത്ഥത്തിൽ π ൽ 1 ചക്രം പൂർത്തിയാക്കുന്നു കാരണം ഫ്രേക്യുഎൻസി 2ω is ആണ് ഡബിൾ ഫ്രേക്യുഎൻസി അതായത് ഓരോന്നും ഒരു ക്വാട്ടർ സൈക്കിൾ ആണ് അതിനാൽ ഈ ഭാഗം എനർജി സ്വീകരിക്കുന്നു മറ്റൊരു ക്വാട്ടർ സൈക്കിൾ തിരികെ അയയ്ക്കുന്നു സോഴ്സ്സ് തിരികെ നൽകിക്കൊണ്ട് നിങ്ങൾ വിളിക്കുന്നത് ഇതാണ് അതിനാൽ 1 ക്വാട്ടർ സൈക്കിൾ എനർജി സ്വീകരിക്കുന്നു മറ്റൊരു ക്വാട്ടർ സൈക്കിൾ അത് തിരികെ വരും അതിനാൽ ഞാൻ അത് മായ്ക്കട്ടെ അതിനാൽ അതാണ് ഞാൻ ഇവിടെ എഴുതിയത് ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് അബ്സോർബ് ചെയ്യപ്പെട്ട ആവറേജ് പവർ 0 ആണ് അത് ഇവിടെ നൽകിയിരിക്കുന്നു ദയവായി ഈ ഇന്റഗ്രേഷൻ ചെയ്യുക അത് ലളിതമായ കാര്യമാണ് ഒരു ചക്രത്തിന്റെ 1 പാദത്തിൽ ഇൻഡക്റ്റീവ് മൂലകത്തിന് ഉറവിടത്തിൽ നിന്ന് എനർജി ലഭിക്കുന്നു എന്നതാണ് ഇതിന്റെ അർത്ഥം ഞാൻ നിങ്ങളോട് പറഞ്ഞു കാരണം 0 മുതൽ π വരെ ഇത് 1 ചക്രം പൂർത്തിയാക്കുന്നു അതിനാൽ അതിനർത്ഥം 2π ൽ ഇത് 2 ചക്രങ്ങൾ പൂർത്തിയാക്കുന്നു കാരണം ഇത് ഡബിൾ ഫ്രേക്യുഎൻസി ആണ് അതിനാൽ പ്രയോഗിച്ച വോൾട്ടേജിന്റെ 1 പാദത്തിൽ ഇത് ഉറവിടത്തിൽ നിന്ന് എനർജി സ്വീകരിക്കുകയും സൈക്കിളിന്റെ അടുത്ത 1 പാദത്തിൽ അതേ അളവിലുള്ള എനർജി ഡ്രൈവിംഗ് ഉറവിടത്തിലേക്ക് തിരികെ നൽകുകയും ചെയ്യുന്നു ഈ സമയത്ത് ഈ വസ്തു സർക്യൂട്ടിലേക്ക് വിതരണം ചെയ്യുന്ന എനർജി ന്റെ അളവ് അതിനാൽ ഇന്റഗ്രേഷൻ ൽ ഞങ്ങൾ T4 മുതൽ T2 വരെ എടുക്കും എന്തുകൊണ്ട് ഇതിലേക്ക് വന്നാൽ ഇത് 0 ആണ് ഈ പോയിന്റ് T4 ഉം ഈ പോയിന്റ് T2 ഉം ഇത് 3 T4 ഉം ഇത് T ഉം ആണ് ഈ വഴി സ്വീകരിക്കുകയാണെങ്കിൽ T 2π അതിനാൽ അതിനർത്ഥം ഞങ്ങൾ T4 മുതൽ T2 വരെ സംയോജിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ T4 മുതൽ T2 വരെയാണ് ഇത് Vm Im2 sin 2 ω t dt നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്ത് ലളിതമാക്കുകയാണെങ്കിൽ ഈ ബന്ധം ഉപയോഗിക്കുക ω 2π2 അത് L Im2 2 ആയിരിക്കും അതായത് L Im 2 2 L Im√ 22 അതായത് L IRMS 2 അതിനാൽ ഒരു AC സർക്യൂട്ടിൽ നമുക്ക് അറിയാവുന്നതെന്തും സംഭരിച്ചിരിക്കുന്ന എനർജി L Im22 ആണ് അതിനാൽ ആരെങ്കിലും L Im 22 എന്നാണ് അർത്ഥമാക്കുന്നതെങ്കിൽ അത് R m പീക്ക് മൂല്യമാണ് rms മൂല്യമല്ല Rms മൂല്യം എടുക്കുകയാണെങ്കിൽ അത് L IRMS 2 ആയിരിക്കും അതുകൊണ്ടാണ് ഇത് L Im 2 2 ആണ് അതുപോലെ പൂർണ്ണമായും കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ അതേ തത്ത്വചിന്ത പ്രയോഗിക്കപ്പെടും വഴി പിന്തുടരുക അത് വിപരീതമായിരിക്കും അതിനാൽ ഈ സാഹചര്യത്തിൽ പൂർണ്ണമായും കപ്പാസിറ്റീവ് സർക്യൂട്ടിന്റെ കാര്യത്തിൽ DC സർക്യൂട്ട് വിശകലനത്തിൽ നിന്ന് നമുക്ക് q C V അറിയാം അതിനാൽ V qC Vm sin ω t അതേ കാര്യം തന്നെയാണ് ഞങ്ങൾ എടുത്തത് ഇൻസ്റ്റന്റന്റ്സ് പൊളാരിറ്റി അവിടെയുണ്ട് അതിനർത്ഥം IC dqdt എന്നാണ് നിങ്ങൾക്കത് അറിയാം അതിനാൽ ഇത് Vm ω C cos ω t ആയിരിക്കണം ഇതിന്റെ ഒരു ഡെറിവേറ്റീവും i dqdt ഉം എടുക്കുകയാണെങ്കിൽ അതിനാൽ ഇത് Vm r ω C cos ω t ആയിരിക്കും അതിനാൽ നിങ്ങൾക്ക് sin 90 o cos എഴുതാം അതിനാൽ നിങ്ങൾക്ക് ഇത് ഒരു VmIC Vm1ω C sin ω t 90 o എഴുതാം അതിനർത്ഥം V Vm sin ω t അതായത് rms മൂല്യം Vm√ 2 ആണ് V Vm√ 2 ഇതിനർത്ഥം ഫാസർ നൊട്ടേഷൻ V ആംഗിൾ 0o ആയിരിക്കും അതിനർത്ഥം ഇത് നമുക്ക് എഴുതാം അതുപോലെ കറന്റിന് എനിക്ക് Im sin ω t ലഭിച്ചു അതിനാൽ നിലവിലെ നൊട്ടേഷനിൽ ഞങ്ങൾ ഈ കറന്റ് IC യായി എഴുതുന്നു അതിനാൽ IC IC ആംഗിൾ 90o കാരണം ഇത് sin ω t 90o ആണ് അതിനാൽ ആ IC യഥാർത്ഥത്തിൽ IC Im√ 2 ആണ് കാരണം ഇത് rms മൂല്യമാണ് നമ്മൾ ഫേസ് മൂല്യം എഴുതുമ്പോഴെല്ലാം അത് rms മൂല്യമാണ് അതിനാൽ IC Im√ 2 ഇത് Vm1ω C ആണ് അതിനാൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ സമാനമായ രീതിയിൽ ഞങ്ങൾക്ക് Z ലഭിക്കും അതുപോലെ ഞാൻ സൂചിപ്പിച്ച രീതിയും അതിനാൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾ V വരച്ചാൽ യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു V V ആംഗിൾ 0o IC IC ആംഗിൾ 90o അതിനാൽ ഈ സാഹചര്യത്തിൽ കറന്റ് 90o ആണ് ഇത് 0o ആണ് അതിനാൽ ഇത് റഫറൻസ് ഫേസർ v ആണ് ഇത് i ആണ് അതിനാൽ പൂർണ്ണമായും കപ്പാസിറ്റീവ് സർക്യൂട്ട് ൽ i v നെകാളും 90o ലീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ v i ൽ നിന്ന് 90o ലാഗ് ചെയ്യുന്നു അതിനാൽ ഇത് ഫേസർ ഡയഗ്രമാണ് സമാനമായ രീതിയിൽ നിങ്ങൾ നീക്കുകയാണെങ്കിൽ Z C 1ω C ആംഗിൾ 90o ഈ കേസിൽ ഞങ്ങൾ കാണും ഇൻഡക്റ്റീവ് സർക്യൂട്ടിനായി ഞാൻ ചെയ്ത രീതി നിങ്ങൾ ചെയ്യുന്ന അതേ രീതിയിൽ അപ്പോൾ നമുക്ക് Z C കപ്പാസിറ്റീവ് റിയാക്റ്റൻസിന്റെ അളവ് 1ω C ആംഗിൾ 90o ലഭിക്കും അതിനാൽ ബാർ ഇടുക അതായത് ഇത് യഥാർത്ഥത്തിൽ 0 ആണ് 0 ത്തെ കുറിച്ച് മറക്കുക ഇത് യഥാർത്ഥത്തിൽ jω C ആണ് ഞാൻ അത് മായ്ക്കട്ടെ ആംഗിൾ 90o cos 90o j sin 90o j ഇത് ω C കൊണ്ട് ഗുണിച്ചാൽ j ωC അതിനാൽ ഇത് jω C ആകും അതിനാൽ നിങ്ങളുടെ 1ω C ആംഗിൾ 90o jω C അങ്ങനെ ഇതാണ് യഥാർത്ഥത്തിൽ മാഗ്നിറ്റുഡ് യഥാർത്ഥത്തിൽ ωC യെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് വിളിക്കുന്നു അതിനാൽ ഈ ω C യെ യഥാർത്ഥത്തിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്നും X 1ω C എന്നും ω 2πf എന്നും പ്രതിനിധീകരിക്കുന്നു അതിനാൽ 12πf C അതിനാൽ പൂർണ്ണമായും കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ കറന്റ് വോൾട്ടേജിനെ 90o ലീഡ് ചെയ്യുന്നു ഞാൻ കാണിച്ചുതന്നു അതിനാൽ ഞാൻ അത് മായ്ക്കട്ടെ അതിനാൽ പൂർണ്ണമായും കപ്പാസിറ്റീവിലെ പവർ ഉം എനർജി ഉം ആയിരിക്കും ഇൻസ്റ്റന്റന്റ്സ് പവർ p v i നിങ്ങൾ Vm sin ω t Im Im sin ω t 90 o ആക്കി നിങ്ങൾ ഇത് ലളിതമാക്കിയാൽ അത് Vm Im sin ω t ആയിരിക്കും കാരണം sin 90o ω t ആണ് cos ω t ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 കൊണ്ട് ഗുണിക്കുക അതിനാൽ ഇത് 2 sin cos ആയിരിക്കും അതിനാൽ 2sin ω t cos ω t അതിനാൽ sin 2 ω t നിങ്ങൾ പവർ P 1T 0 മുതൽ T p dt വരെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആവറേജ് പവർ എടുക്കുകയാണെങ്കിൽ അത് 0 ആയിത്തീരും അതിനാൽ പവർ വ്യതിയാനം വീണ്ടും ഡബിൾ ഫ്രേക്യുഎൻസി ആണ് കാരണം ഇത് യഥാർത്ഥത്തിൽ ഡബിൾ ഫ്രേക്യുഎൻസി 2 ω ഉം 0 ഉം ആണ് അവിടെ ഒരു റെസിസ്റ്റർ ഇല്ല അതിനാൽ ഒരു പവർ ഉം ഉണ്ടാകില്ല അതിനാൽ ആവറേജ് പവർ 0 ആയിരിക്കും എന്നാൽ നിങ്ങൾ ഇവിടെയും എടുക്കുകയാണെങ്കിൽ കപ്പാസിറ്ററിന് സൈക്കിളിന്റെ ആദ്യ പാദത്തിൽ ഉറവിടത്തിൽ നിന്ന് എനർജി ലഭിക്കുകയും സൈക്കിളിന്റെ രണ്ടാം പാദത്തിൽ അതേ അളവിൽ മടങ്ങുകയും ചെയ്യും ഉദാഹരണത്തിന് ഈ ഫേസർ ഡയഗ്രം നോക്കുക ഇതാണ് പവർ ഇതാണ് വോൾട്ടേജ് കറന്റ് ഇവിടെ കറന്റ് നയിക്കുന്നു ഇതാണ് Im ഇതാണ് നിങ്ങളുടെ പരമാവധി കറന്റ് കറന്റ് വോൾട്ടേജിനേക്കാൾ വേഗതയുള്ളതിനാൽ കറന്റ് 90o ന് മുന്നിലാണ് അതിനാൽ കറന്റ് 90o ന് മുന്നിലാണ് ഇത് IC ഉയർന്ന മൂല്യം Im ആണ് അത് Vm1ω C ആണ് പവർ ഡബിൾ ഫ്രേക്യുഎൻസി ആണ് അതിനാൽ ഇത് 0 ആണെങ്കിൽ അത് T4 ആണ് T2 മുതലായവ അതിനാൽ ഒരേ തത്ത്വചിന്ത അതിനാൽ 2π ലെ കറന്റ് ഒരു സൈക്കിൾ ഉണ്ടാക്കും എന്നാൽ 2π ൽ പവർ 2 സൈക്കിൾ ഉണ്ടാക്കും ഇത് 2 സൈക്കിൾ പൂർത്തിയാക്കും അതിനാൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഇത് ക്വാട്ടർ സൈക്കിൾ 0 മുതൽ T4 Vm Im2 പാപം 2 ω t dt വരെ മാത്രം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇതുമായി ഇന്റഗ്രേറ്റ് ചെയ്ത് അത് C Vm 22 ആവും DC ൽ നമ്മൾ പഠിച്ച കപ്പാസിറ്ററിൽ സംഭരിച്ചിരിക്കുന്ന എനർജി C V2 2 ആണെന്ന് നിങ്ങൾക്കറിയാം ഇത് C Vm 2 2 ആയി മാറുന്നു അതായത് C Vm 2 2 ഇതിനർത്ഥം ഇത് C Vm√ 22 എഴുതാം എന്നാണ് അതായത് C vrms2 അതിനർത്ഥം AC സർക്യൂട്ടിൽ നമ്മൾ C V 2 നെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം അതിനർത്ഥം v ഏറ്റവും ഉയർന്ന മൂല്യം അല്ലെങ്കിൽ C Vrms 2 ഉണ്ടാക്കണം എന്നാണ് അത് AC സർക്യൂട്ടിലും കപ്പാസിറ്റീവ് സർക്യൂട്ടിലും സംഭരിച്ചിരിക്കുന്ന എനർജി ആണ് അതിനാൽ ഇത് തികച്ചും കപ്പാസിറ്റീവ് സർക്യൂട്ടാണ് അതിനാൽ നമ്മൾ പഠിച്ചത് പൂർണ്ണമായും റെസിസ്റ്റീവ് സർക്യൂട്ടിന് എനർജി അബ്സോർബ് ചെയ്യപ്പെടുന്നത് v I പൂർണ്ണമായും ഇൻഡക്റ്റീവ് സർക്യൂട്ടിന്റെ കാര്യത്തിൽ പവർ അബ്സോർബ് ചെയ്യപ്പെടുന്നത് 0 ആണ് ആവറേജ് പവർ അബ്സോർബ് ചെയ്യപ്പെടുന്നത് 0 ആണ് അതുപോലെ കപ്പാസിറ്റീവ് സർക്യൂട്ടിന് എന്നാൽ പൂർണ്ണമായും ഇൻഡക്റ്റീവ് സർക്യൂട്ടിലെ എനർജി L Im 2 2 ഉം കപ്പാസിറ്റീവ് സർക്യൂട്ടിന് ഇത് C Vm 22 ആയിരിക്കും ഈ ഇന്റഗ്രേഷൻ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന വളരെ ലളിതമാണ് പക്ഷേ ഈ ബന്ധം എപ്പോഴും ഉപയോഗിക്കുക ω 2πT വളരെ നന്ദി